തിരികെ സ്വാഗതം ഇത് ലെക്ച്ചർ നമ്പർ 45 ആണ് ലീനിയർ ട്രാൻസ്ഫർമേഷനുകളെക്കുറിച്ചുള്ള നമ്മളുടെ ചർച്ച തുടരും ഇന്ന് നമ്മൾ കേർണലും ഇമേജ്ഉം അവയുടെ ഡയമെന്ഷനുകൾകളും കണ്ടെത്തുന്ന ചില പ്രവർത്തന പ്രശ്നങ്ങൾ കാണും അതിനാൽ മുൻ ലെക്ച്ചറിൽ നിന്ന് നമ്മൾ ഇവിടെ കണ്ടത് F X → Y എന്നത് Ker Im എന്നിവയാണ് അതിനാൽ ഇവ Ker Im എന്നിവയ്ക്കുള്ള രണ്ട് നിർവചനങ്ങളായിരുന്നു കൂടാതെ റാങ്ക് എന്നത് Im ന്റെ ഡയമെന്ഷനും Ker ന്റെ ഡയമെന്ഷനുയി നമ്മൾ നിർവചിക്കുന്നത് നള്ളിറ്റിയാണെന്നും നമ്മൾ കണ്ടു അതിനാൽ ഈ നിർവചനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഇപ്പോൾ ഇവിടെ ഉദാഹരണം ആരംഭിക്കുന്നു ഇവിടെ നമ്മൾ ഒരു ലീനിയർ മാപ്പിംഗ് നിർവ്വചിക്കുന്നു ഇത് ൽ നിന്നുള്ള ഘടകത്തെ മാപ്പ് ചെയ്യുന്നു

ഇത് ൽ നിന്നുള്ള മൂലകമാണ് നമ്മൾ ഇപ്പോൾ എന്താണ് കണ്ടെത്തേണ്ടത് ആദ്യം നമ്മൾ ന്റെ ഒരു ബേയ്സിസും ഡയമെന്ഷനും കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു ന്റെ ഒരു ബേയ്സിസും ഡയമെന്ഷനും അതിനാൽ ഇമേജ് എന്താണെന്നും എന്താണെന്നും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ആദ്യം നമുക്ക് നെക്കുറിച്ച് സംസാരിക്കാം കഴിഞ്ഞ ലെക്ച്ചർൽ നിന്ന് നമുക്ക് അറിയാവുന്നത് ഒരിക്കൽ നമുക്ക് വെക്റ്റർ സ്പേസ് X ൽ ഈ വെക്റ്റർ സ്പേസ്നെ സ്പാൻ ചെയ്യുന്ന ഘടകങ്ങൾ ഉണ്ട് എങ്കിൽ ഉദാഹരണത്തിന് ഇവിടെ നമ്മൾക്ക് ഈ ഉണ്ട് അതിനാൽ ഇവ ഒരു സ്റ്റാൻഡേർഡ് ബേയ്സിസ് ആണെന്ന് നമുക്കറിയാം നമുക്ക് അവ എടുക്കാം കാരണം അവയുമായി പ്രവർത്തിക്കാൻ എളുപ്പമാണ് ഇവ ലെ x എന്ന ഒരു എലെമെന്റിനെ സ്പാൻ ചെയ്യുന്നുവെങ്കിൽ അവയുടെ ഇമേജുകൾ എന്നിവ x ന്റെ ഇമേജിനെ സ്പാൻ ചെയ്യും എന്നത് മുൻ പ്രഭാഷണത്തിന്റെ ഫലമായ തിയറത്തിൽ നിന്ന് നമുക്കറിയാം എന്നിവ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇപ്പോൾ കമ്പ്യൂട്ട് ചെയ്യാം അതിനാൽ ഇവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം കൾ ഈ സാഹചര്യത്തിൽ ൽ നിന്നുള്ള സാധാരണ വെക്റ്ററുകളാണ് എന്നത് ഓർക്കുക അതിനാൽ ഇവയാണ് എന്നത് 1 0 0 0 R4 മുതൽ e2 0 1 0 0 e3 0 0 1 0 കൂടാതെ e4 0 0 0 1 എന്നിങ്ങനെ ആയിരിക്കും

ഇപ്പോൾ F എന്നത് ൽ പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കും ഇവയെല്ലാം ൽ നിന്നുള്ള വെക്റ്ററുകൾ ആണ് ഈ വെക്റ്ററുകൾ image സ്പാൻ ചെയ്യുമെന്ന് നമ്മൾ ഇതിനകം പഠിച്ച സിദ്ധാന്തം ഉപയോഗിച്ച് നമ്മൾക്കറിയാം എന്താണ് image എന്തെല്ലാമാണ് image ന്റെ ബെയ്സിസ് എന്താണ് image ന്റെ ഡയമെൻഷൻ എന്നിവ കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ നാല് വെക്റ്ററുകൾ ൽ image നെ സ്പാൻ ചെയ്യുമെന്ന് നമ്മൾക്ക് ഇതിനകം അറിയാം പക്ഷേ അവ ഒരു ബെയ്സിസ് ആവുന്നില്ല കാരണം യിലെ നാല് വെക്റ്ററുകൾ ഡിപെൻഡൻഡ് ആയിരിക്കും അതിനാൽ ഈ വെക്റ്ററുകളിൽ നിന്ന് നമുക്ക് ഇപ്പോൾ വേർതിരിച്ചെടുക്കേണ്ടത് ലീനിയർലി ഇൻഡിപെൻഡൻഡ് ആയ വെക്റ്ററുകൾ മാത്രം ശേഖരിക്കേണ്ടതുണ്ട് അതിനാൽ ഈ വിപുലീകൃത സെറ്റിൽ നമുക്ക് എത്ര ലീനിയർലി ഇൻഡിപെൻഡൻഡ് ആയ വെക്റ്ററുകൾ ഉണ്ടെന്ന് ഇപ്പോൾ കാണണം കൂടാതെ ലീനിയർലി ഇൻഡിപെൻഡൻഡ് ആയ വെക്റ്ററുകളുടെ എണ്ണം image ന്റെ ഡയമെൻഷൻ ആയിരിക്കും ഈ 4 ൽ ലീനിയർലി ഇൻഡിപെൻഡൻഡ് ആയ വെക്റ്ററുകൾ image ന്റെ ബെയ്സിസും ആകും അതിനാൽ ഇപ്പോൾ നമുക്ക് ഇത് ചെയ്യാം അതിനാൽ ഇവ ബെയ്സിസ് ആയിരിക്കുകയില്ല ഈ വെക്റ്ററുകളിൽ എത്ര എണ്ണം ലീനിയർലി ഇൻഡിപെൻഡൻഡ് ആണെന്ന് നമുക്ക് ഇപ്പോൾ കണ്ടെത്താം അതിനാൽ അങ്ങനെ ചെയ്യാൻ ഈ വെക്റ്റർകൾ ഉള്ളതിനാൽ അവ കോളങ്ങളായി വരുന്ന മാട്രിക്സ് ഫോം ചെയ്യുന്നു നമുക്ക് ഇപ്പോൾ ഇതിനെ റോ റെഡ്യൂസ്ഡ് എക്കെലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യാം ആ റോ റെഡ്യൂസ്ഡ് എക്കെലോൺ ഫോമിൽ നിന്ന് ഏതെല്ലാം വെക്റ്ററുകൾ ലീനിയർലി ഇൻഡിപെൻഡൻഡ് ആണെന്ന് ഏതെല്ലാം വെക്റ്ററുകൾ ലീനിയർലി ഡിപെൻഡൻഡ് ആണെന്ന് നമുക്ക് കണ്ടെത്താനാകും മുൻ ലെക്ച്ചറുകളിൽ ഇത്തരത്തിലുള്ളതിൻറെ ഒരു ഉദാഹരണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആദ്യ ഘട്ടമെന്ന നിലയിൽ നമ്മൾ ഈ രണ്ട് ഘടകങ്ങളും 0 ആയി സജ്ജമാക്കും ആദ്യ വരി അത് പോലെ തന്നെ ആയിരിക്കും ഇവിടെ രണ്ടാമത്തേത് 0 ആക്കും ഫസ്റ്റ് റോയുടെ 2 ടൈംസ് എടുത്ത് സെക്കന്റ് റോ ഫസ്റ്റ് റോയിൽനിന്ന് സബ്ട്രാക്ട ചെയ്യുന്നു ഇവിടെ സെക്കന്റ് റോ ഇപ്പോൾ 0 0 1 2 ആവുന്നു അതോടൊപ്പം ഫസ്റ്റ് റോയുടെ 3 ടൈംസ് എടുത്ത് തേർഡ് റോ ഫസ്റ്റ് റോയിൽനിന്ന് സബ്ട്രാക്ട ചെയ്യുന്നു തേർഡ് റോയും 0 0 1 2 ആവുന്നു റോ റീഡക്ഷൻ പ്രക്രിയയുടെ ഒരു ഘട്ടമാണിത് ഇപ്പോൾ ഈ വരി 2 ന്റെ സഹായത്തോടെ നമ്മൾ ഈ 0 പറയുകയും ഇതിനകം അവിടെ നൽകിയിട്ടുള്ള ഈ മാട്രിക്സ് നമുക്ക് ലഭിക്കുകയും ചെയ്യും അതിനാൽ ഇതാണ് റോ റെഡ്യൂസ്ഡ് എക്കെലോൺ ഫോം ഈ സാഹചര്യത്തിൽ ഇപ്പോൾ പിവറ്റുകൾ നമ്മൾ ഇവിടെ കണ്ടെത്തും അതിനാൽ നമ്മൾക്ക് 1 ഒരു പിവറ്റായി ഉണ്ട് ഇതും ഇവിടെ പിവറ്റ് ആണ് രണ്ട് പിവറ്റുകൾ മാത്രമേയുള്ളൂ അതിനാൽ ഈ കോളം നമ്പർ 1 ഉം കോളം നമ്പർ 3 ഉം അവക്ക് പിവറ്റുകൾ ഉണ്ട് അതിനാൽ നമുക്ക് ഇവിടെ കോളം നമ്പർ 1 ഉം കോളം നമ്പർ 3 ഉം തിരഞ്ഞെടുക്കാം അവ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും ഇവിടെ ഈ രണ്ടാം കോളത്തിന് ഒരു പിവറ്റ് ഇല്ല ഒന്നാം കോളത്തിനും ഒരു പിവറ്റ് ഇല്ല ആ രണ്ട് കോളങ്ങൾ ഈ കോളം നമ്പർ 1 കോളം നമ്പർ 3 എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ഒരാൾക്ക് കാണിക്കാൻ കഴിയും അതിനാൽ ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്റ്ററുകൾ കണ്ടെത്താൻ ഇത് വളരെ ചിട്ടയായ സമീപനമായിരുന്നു അതിനാൽ ഇപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് ഇവിടെ പിവറ്റ്കൾ ഉള്ള കോളങ്ങൾ എടുക്കാം അതിനാൽ ഈ കോളം നമ്പർ ഒന്ന് കൂടാതെ ഈ കോളം നമ്പർ 3 എന്നിവ എടുക്കാം അവ ബെയ്സിസ് ഫോം ചെയും അതിനാൽ ഈ ഇമേജ്ന്റെ ഡയമെൻഷൻ ഈ രണ്ട് വെക്റ്ററുകളുടെ ബെയ്സിസിന്റെ വെക്ടറുകളുടെ എണ്ണം ആയിരിക്കും അതിനാൽ ഇമേജ് F ന്റെ ബെയ്സിസ് ഫോം ചെയ്യുന്നു കൂടാതെ ഇമേജ് F ന്റെ ഡയമെൻഷൻ 2 ആണ് ഇപ്പോൾ Kernel of F ലേക്ക് പോകുന്നു കേർണൽ F എന്തായിരുന്നു ഇപ്പോൾ x ലെ മൂലകങ്ങൾക്കായി നമ്മൾ തിരയുന്നു അതിന്റെ മാപ് Y ൽ 0 ആണ് അതിനർത്ഥം ഈ വെക്റ്ററുകൾ x y z t എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അഥവാ ഇമേജ് 0 ആയിട്ടുള്ള വെക്റ്ററുകൾ നമുക്ക് ഇപ്പോൾ ഉള്ള നിർവചനത്തിൽ നിന്ന് എന്താണ് ഇപ്പോൾ കാണുന്നത് ൽ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് യഥാർത്ഥത്തിൽ ഈ 3 സമവാക്യങ്ങൾ ലഭിക്കും ഈ x y z t എന്നിവയുടെ സാധ്യമായ എല്ലാ മൂല്യങ്ങളും ലഭിക്കുന്നതിന് ഇപ്പോൾ ഈ സമവാക്യങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ സമവാക്യ സിസ്റ്റത്തിന്റെ കോയിഫിഷ്യന്റ് മാട്രിക്സിന്റെ ശൂന്യമായ സ്ഥലമല്ലാതെ മറ്റൊന്നുമല്ല F ന്റെ കേർണൽ അതിനാൽ ഈ കോഫിഫിഷ്യന്റ് മാട്രിക്സിന്റെ നൾ സ്പേസ് ആയിരിക്കും അതായത് Kernel F ആയിരിക്കും കാരണം F ന്റെ കേർണൽ എന്താണ് R4 ൽ നിന്ന് ഉള്ള ഈ വെക്റ്ററുകളെല്ലാം അവയുടെ ഇമേജ് 0 ആയിരിക്കും നമുക്ക് പരിഹരിക്കാൻ എന്താണ് വേണ്ടത് ലീനിയർ സമവാക്യങ്ങളുടെ ഈ സംവിധാനം നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട് എത്ര സൊല്യൂഷനുകളുണ്ട് അല്ലെങ്കിൽ എത്ര ലീനിയർ സ്വതന്ത്ര സൊല്യൂഷനുകൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തും അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഹോമോജീനിയസ് സമവാക്യങ്ങളുടെ സൊല്യൂഷൻന്റെ ജനറേറ്ററുകൾ എന്ന് നമ്മൾ വിളിക്കുന്നു അവിടെ നിന്ന് നമ്മൾ കണ്ടെത്തും കേർണലിന്റെ ഡയമെൻഷൻ എന്താണ് കേർണലിന്റെ ബെയ്സിസ് എന്താണ് എന്നിവ അതിനാൽ ഈ സമവാക്യ സിസ്റ്റത്തെ നമ്മൾ അവസാനം പരിഹരിക്കേണ്ടതുണ്ട് നമുക്ക് ഈ മാട്രിക്സ് ഫോം ഇടാം വീണ്ടും നമ്മൾ മുമ്പ് ചെയ്ത റെഡ്യൂസ്ഡ് എക്കെലോൺ ഫോമിലേക്ക് പരിവർത്തനം ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് ഇത് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും 1 ഇതാണ് ഇവിടെ പിവറ്റ് അതിനാൽ ഈ x യ്ക്ക് അനുബന്ധമാണ് ഇതാണ് രണ്ടാമത്തെ പിവറ്റ് ഇത് z ന് യോജിക്കുന്നു ഇത് t ന് യോജിക്കുന്നതാണ് അതിനാൽ ഇവിടെ നമുക്ക് പിവറ്റുകൾ ഇല്ലാത്ത നിരകളാണിത് രണ്ടും നാലും അതിനാൽ ഇവയാണ് നമ്മൾ വിളിക്കുന്ന സ്വതന്ത്ര വേരിയബിളുകൾ അതിനാൽ രണ്ട് സ്വതന്ത്ര വേരിയബിളുകൾ ഉണ്ട് അത് ഇവിടെ 2 ആകുന്ന നള്ളിറ്റി അഥവാ നൾ സ്പേസിന്റെ ഡയമെൻഷൻ കൃത്യമായി നിർവ്വചിക്കും അതിനാൽ ഈ കേർണലിന്റെ ഡയമെൻഷൻ 2 ആണെന്ന് വ്യക്തമാണ് അതിനുള്ള ബെയ്സിസ് നമ്മൾ ഇപ്പോൾ കണ്ടെത്തേണ്ടതുണ്ട് ഇതിൽ നിന്ന് സൊലൂഷൻ എഴുതുന്നു ആദ്യം നമ്മൾ ഈ ഫ്രീ വേരിയബിളുകൾ അനുമാനിക്കും അത് y t ആയിരുന്നു ഇൻഡിപെൻഡൻസ് വേരിയബിളുകൾ അതിനാൽ ഈ ഫ്രീ വേരിയബിളുകൾക്കായി നമ്മൾ ചില മൂല്യങ്ങൾ എടുക്കും നമുക്ക് ഈ ചില ആർബിട്രേറി സംഖ്യകൾ എടുക്കാം കാരണം നമുക്ക് ഈ y t എന്നിവ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം അതിനാൽ നമ്മൾ ഇത് ഉം ഉം തിരഞ്ഞെടുത്തു തുടർന്ന് നമുക്ക് മറ്റുള്ളവ കണക്കാക്കാം ഉദാഹരണത്തിന് രണ്ടാമത്തെ സമവാക്യത്തിൽനിന്ന് z ഫോം ചെയ്യാം ഈ സമവാക്യം z 2t എന്നത് 0 ന് തുല്യമാണ് എന്നാണ് അതിനാൽ z 2 അങ്ങനെ അത് z ആയിരിക്കും സമവാക്യ നമ്പർ 1 ൽ നിന്ന് നമുക്ക് ഈ ലഭിക്കും അതിനാൽ നമ്മൾക്ക് ഈ t z x എല്ലാം കൂടാതെ ഉണ്ട് അതിനാൽ നമുക്ക് ഈ വെക്റ്റർ രൂപത്തിൽ x y z t ഒരു മാട്രിക്സിൽ എഴുതാം ഇവിടെ ഇത് സ്ഥിരാങ്കം ആയിരിക്കും ഇത് നമുക്ക് ഇപ്പോൾ x എന്നതിന് കോയിഫിഷ്യന്റ് ശേഖരിക്കാവുന്നതാണ് ഇവിടെ y യുടെ കോയിഫിഷ്യന്റ് എന്നത് 0 z ന്റെ കോയിഫിഷ്യന്റ് മൈനസ് 2 ആണ് t യുടെ കോയിഫിഷ്യന്റ് 1 അതിനാൽ അതുപോലെ നും നമുക്ക് ഇവിടെ കോയിഫിഷ്യന്റ്കൾ ശേഖരിക്കാനും കഴിയും ൽ ഉം ഈ z ഉം അതിനാൽ ഇവിടെ 0 കൂടാതെ ഈ t ക്ക് ഇല്ല അതിനാൽ ഈ കോയിഫിഷ്യന്റ് കൊണ്ട് 0 ആണ് അതിനാൽ ഈ and ന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ x y z സൊല്യൂഷൻ എഴുതി and എന്നിവയ്ക്ക് ഏത് മൂല്യങ്ങളും നൽകാം കൂടാതെ നമുക്ക് ഈ സമവാക്യ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ ഇവിടെ സൃഷ്ടിക്കാൻ കഴിയും സൊല്യൂഷൻ F ന്റെ കേർണൽ അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഇവിടെ ഈ രണ്ട് ജനറേറ്ററുകളാണ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അഥവാ അവ സൊല്യൂഷൻ സ്പാൻ ചെയ്യുന്നു കൂടാതെ ഈ രണ്ട് വെക്റ്ററുകളും ലീനിയർലീ ഇൻഡിപെൻഡൻസ് ആണ് അതിനാൽ F ന്റെ കേർണൽ മുഴുവൻ സ്പാൻ ചെയ്യൻ കഴിയുന്ന ഈ ലീനിയർലീ ഇൻഡിപെൻഡൻസ് വെക്റ്റർ നമ്മളുടെ പക്കലുണ്ട് അതിനാൽ സ്വാഭാവികമായും ഈ രണ്ട് വെക്റ്ററുകളും ബെയ്സിസ് ആവുകയും ഈ ബെയ്സിസ്ന്റെ ഡയമെൻഷൻ രണ്ട് ആകുകയും ചെയ്യും അതിനാൽ ഈ രണ്ട് വെക്റ്ററുകളും കേർണൽ എഫിന്റെ ബെയ്സിസ് ആണ് നമ്മൾ വിളിക്കുന്ന ഡയമെൻഷൻ അല്ലെങ്കിൽ നള്ളിറ്റി ഇതിനകം തന്നെ കേർണലിന്റെ ഡയമെന്ഷനോ അല്ലെങ്കിൽ ഈ F ന്റെ നള്ളിറ്റിയോ ആണ് ഇത് ഈ ഫ്രീ വേരിയബിളുകളുടെ എണ്ണത്തിൽ നിന്നും രണ്ട് എന്ന് വ്യക്തമായിരുന്നു അതിനാൽ നമുക്ക് ഡയമെൻഷൻ അല്ലെങ്കിൽ നള്ളിറ്റിയും ബെയ്സിസും ലളിതമായി ലഭിക്കും ഇപ്പോൾ നമുക്ക് ഉള്ള മറ്റൊരു ഉദാഹരണം എന്നും നൽകിയിരിക്കുന്നു F ഈ ൽ നിന്നു ലേക്കുള്ള ഒരു ലീനിയർ മാപ്പാമാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു കാരണം ഇത് യിലെ എലെമെന്റിനെ മാപ്പ് ചെയ്യുന്നു ഈ u ഉം v ഉം ൽ നിന്നാണ് അവയുടെ ഔട്ട്പുട്ട് ൽ ആണ് അതിനാൽ ഇത് ൽ നിന്നു ലേക്കുള്ള മാപ്പുകൾ ഇപ്പോൾ എന്താണ് ചോദ്യം ആണെങ്കിൽ നമുക്ക് ഈ കണ്ടെത്താൻ കഴിയുമോ അതെ മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ പക്ഷേ നമുക്ക് യുടെ ഇമേജുകൾ എന്തെല്ലാം ആയിരിക്കുമെന്ന് കണ്ടെത്തേണ്ടതുണ്ട് കൂടാതെ F ഒരു ലീനിയർ മാപ്പാമാണ് അതിനാൽ ലീനിയർ മാപ്പിനെക്കുറിച്ച് നമുക്കെന്തറിയാം ഈ അഡിറ്റീവ് പ്രോപ്പർട്ടി ആ അതിനാൽ ഇവിടെ നമുക്ക് എന്ത് ചിന്തിക്കാനാകും ഈ നെ നമുക്ക് ഈ u യുടെയും v യുടെയും അടിസ്ഥാനത്തിൽ എഴുതാൻ കഴിയുമെങ്കിൽ w യുടെ F എന്താണെന്ന് നമുക്ക് കണ്ടെത്താനാകും അതായത് ഈ u v എന്നിവയുടെ ഒരു ലീനിയർ കോമ്പിനേഷനായി നമുക്ക് ഈ w എഴുതാൻ കഴിയുമെങ്കിൽ F എന്താണെന്ന് നമുക്ക് കണ്ടെത്താനാകും അതുപോലെ തന്നെ F യും നമുക്ക് കണ്ടെത്താൻ കഴിയും ഈ u v എന്നിവയുടെ ഒരു ലീനിയർ കോമ്പിനേഷനായി നമുക്ക് ഈ y എഴുതാൻ കഴിയുമെങ്കിൽ പിന്നെ നമുക്ക് F y ൽ പ്രയോഗിക്കൻ കഴിയും തുടർന്ന് നമുക്ക് u v എന്നിവയുടെ അടിസ്ഥാനത്തിൽ y യുടെ ഇമേജ് എഴുതാം അതിനാൽ എങ്ങനെ എഴുതാം എന്ന് നമുക്ക് ഇപ്പോൾ ശ്രമിക്കാം നമുക്ക് ഈ w യെ u v എന്നിവയുടെ ലീനിയർ സംയോജനമായി പ്രകടിപ്പിക്കാൻ കഴിയും ഇതിനർത്ഥം ചില സ്കേലറുകൾക്ക് and എന്നിവയ്ക്ക് w എഴുതാൻ കഴിയുമോ അതിനാൽ അങ്ങനെ ചെയ്യുന്നതിന് and എന്നിവയ്ക്കുള്ള ഈ സമവാക്യ സംവിധാനം പരിഹരിക്കുന്നതിന് നമ്മൾ ഇപ്പോൾ വീണ്ടും ഈ ഓഗ്മെന്റഡ് മാട്രിക്സ് രൂപീകരിക്കേണ്ടതുണ്ട് ഈ സമവാക്യങ്ങളുടെ സിസ്റ്റം എഴുതുമ്പോൾ അത് കോളത്തിൽ സ്ഥാപിക്കും ഈ ലീനിയർ കോമ്പിനേഷനുകളിൽ നിന്ന് ഇവിടെ ലഭിക്കുന്നത് സമവാക്യങ്ങളുടെ സിസ്റ്റംആണ് അതിനാൽ അവയിൽ നിന്ന് ഈ സമവാക്യ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ഈ ഓഗ്മെന്റഡ് മാട്രിക്സ് എഴുതാം ഓഗ്മെന്റഡ് മാട്രിക്സ് ഇവിടെ നൽകിയിരിക്കുന്നു ഇപ്പോൾ ഈ ഓഗ്മെന്റഡ് മാട്രിക്സിൽ നിന്ന് ഈ റോ റെഡ്യൂസ്ഡ് ഫോമുകൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ഇത് ഇവിടെ ലളിതമാണ് നമുക്ക് സെക്കന്റ് റോയിൽ നിന്ന് ഫസ്റ്റ് റോ സബ്ട്രാക്ട് ചെയ്യാം ഫസ്റ്റ് റോയുടെ 3 മടങ്ങ് തേർഡ് റോയിൽ നിന്ന് സബ്ട്രാക്ട ചെയ്യാം തുടർന്ന് നമുക്ക് ഈ റെഡ്യൂസ്ഡ് ഫോം ലഭിക്കും ഈ റെഡ്യൂസ്ഡ് ഫോമിൽ നിന്ന് ഫസ്റ്റ് കോളത്തിലും രണ്ടാം കോളത്തിലും ഇവിടെ പിവറ്റ് ആണെന്ന് നമ്മൾ നിരീക്ഷിക്കും ഇതിൽ നിന്നും എന്നിവ ലഭിക്കുന്നു ഇതിൽ നിന്നും എന്ന് എഴുതാം തുടർന്ന് F പ്രയോഗിക്കുമ്പോൾ എന്ന് ലഭിക്കുന്നു ഇപ്പോൾ y യ്ക്കായി അതേ ഘട്ടങ്ങൾ വീണ്ടും ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ ഇപ്പോൾ y 2 1 7 കൂടാതെ നമ്മൾക്ക് ഈ u ഉം v ഉം ഉണ്ട് അതിനാൽ വീണ്ടും u v എന്നിവയുടെ ലീനിയർ കോമ്പിനേഷനായി പ്രകടിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കും വീണ്ടും നമുക്ക് എന്ന ഓഗ്മെന്റഡ് മാട്രിക്സ് ലഭിക്കും വീണ്ടും നമ്മൾ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് പരിവർത്തനം ചെയ്യും അതിനാൽ ഈ റോ റെഡ്യൂസ്ഡ് ഫോം ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ചു ഇപ്പോൾ ഇവിടത്തെ പ്രശ്നം ഇൻകൺസിസ്റ്റൻസിയാണ് അവസാനത്തെ ഏറ്റവും വലത് കോളത്തിന് ഇവിടെ 12 എന്ന ഒരു പിവട്ട് എലമെന്റ് ഉണ്ട് അത് സംഭവിക്കരുത് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇതുമൂലം നമുക്ക് സിസ്റ്റത്തിൽ ഈ ഇൻകൺസിസ്റ്റൻസി ഉണ്ട് അത് സൊല്യൂഷൻന്റെ നോൺ എക്സിസ്റ്റൻസിയിലേക്ക് നയിക്കുന്നു അതിനാൽ ഇവിടെ നമുക്ക് ഈ y ഒരു ലീനിയർ കോമ്പിനേഷൻ ആയി അഥവാ ഈ u v എന്നിവയുടെ ലീനിയർ കോമ്പിനേഷൻ ആയി പ്രകടിപ്പിക്കാൻ കഴിയില്ല അതിനാൽ സിസ്റ്റം അസ്ഥിരമാണ് ഇത് ഇൻകൺസിസ്റ്റൻസിയാണ് അതിനാൽ നമ്മൾക്ക് ഈ F കണക്കാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കാരണം ഇവിടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പര്യാപ്തമല്ല അതിനാൽ നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് നമ്മൾക്ക് ഈ F കണക്കാക്കാൻ കഴിയില്ല ശരി ഇപ്പോൾ മറ്റൊരു നല്ല റിസൾട്ട്ണ്ട് ൽ നിന്നു ലേക്കുള്ള ഒരു ലീനിയർ മാപ്പാണെങ്കിൽ എന്ന തരത്തിലുള്ള ഒരു m ക്രോസ് n മാട്രിക്സ് എല്ലായ്പ്പോഴും നിലനിൽക്കും അതായത് ഈ Tx നിങ്ങൾക്ക് ഈ മാട്രിക്സ് A ഉപയോഗിച്ച് റെപ്രെസെന്റ് ചെയ്യാം മെട്രിക്സുകളുമായി പ്രവർത്തിക്കുന്നത് വളരെ എളുപ്പമാണ് കൂടാതെ മെട്രിക്സുകളുടെ നിരവധി പ്രവർത്തനങ്ങളും മറ്റ് പല സവിശേഷതകളും നമുക്കറിയാം അതിനാൽ മാട്രിക്സ് രൂപത്തിൽ നൽകിയിട്ടില്ലാത്ത ലീനിയർ മാപ്പിനൊപ്പം വേഗത്തിൽ പ്രവർത്തിക്കാൻ ഒരു മാട്രിക്സ് ഫോം ഉണ്ടായിരിക്കുന്നതാണ് നല്ലത് തുടർന്ന് നമുക്ക് മാട്രിക്സ് ഉപയോഗിച്ച് പ്രവർത്തിക്കാം ഈ മാപ്പിൽ നമുക്ക് വേണ്ടതെല്ലാം ചെയ്യാം മാട്രിക്സ് ഇവിടെ A അതിനാൽ ഇവിടെ തെളിവ് വളരെ ലളിതമാണ് ലെ സ്റ്റാൻഡേർഡ് ബേസിസ് നമുക്ക് നിർവചിക്കാം

എന്നിവയാണ് ഈ വെക്റ്റർ സ്പേസ് ൽ നിന്നുള്ള സ്റ്റാൻഡേർഡ് ബേസിസ് ഇപ്പോൾ ലെ ഏത് x നും അതായത് ൽ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയുന്ന ഏത് വെക്റ്ററും ഇവ ഉപയോഗിച്ച് റെപ്രെസെന്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ നിന്ന് കഴിയും കാരണം ഇവയാണ് ഇവിടെ ബേസിസ് അതായത് ഈ അതിനാൽ എന്നിവ ഈ x വെക്റ്ററിന്റെ ഘടകങ്ങൾ ആണ് അതിനാൽ ഈ സ്റ്റാൻഡേർഡ് ബേസിസ്ന്റെ സഹായത്തോടെ നമുക്ക് ഈ അല്ലെങ്കിൽ ചുരുക്കത്തിൽ എന്ന് സമ്മേഷന്റെ രൂപത്തിൽ രേഖപ്പെടുത്താം അതിനാൽ ലെ ഒരു പൊതു ഘടകമായ ഈ x നെ ആ സ്റ്റാൻഡേർഡ് ബെയ്സിസിന്റെ ഒരു ലീനിയർ കോമ്പിനേഷനായി നമ്മൾ പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഈ T പ്രയോഗിച്ചാൽ T യുടെ ലീനിയാരിറ്റി സൂചിപ്പിക്കുന്നത് അടിസ്ഥാനപരമായി നമുക്ക് ഈ T i യിൽ അപ്ലൈ ചെയ്യാം അതിനാൽ നമ്മൾക്ക് ഈഇവിടെയുണ്ട് അതായത് T യുടെ ലീനിയാരിറ്റി കാരണം ഇത് ആയിരിക്കും അതിനാൽ ഇവിടുത്തെ ബന്ധം ഇതായിരിക്കും ഈ മാപ്പ് T ക്ക് കൃത്യമായി യോജിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഈ മാപ്പ് T ആയി പ്രവർത്തിക്കുന്ന A നമ്മൾ ഇപ്പോൾ എങ്ങനെ നിർവചിക്കും എന്നീ വെക്റ്ററുകൾ കോളങ്ങൾ ആയി വരുന്ന മാട്രിക്സ് A ഇവിടെ നമുക്ക് ഇപ്പോൾ നിർവചിക്കാം അതിനാൽ ഈ കോളങ്ങൾ നമ്മൾ ഈ മാട്രിക്സ് A യിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തുടർന്ന് ഈ Ax എന്നത് Tx എന്ന ഈ പ്രോഡക്റ്റ് അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഈ മാട്രിക്സ് പ്രോഡക്റ്റ്ന്റെ ഈ നിർവചനത്തിൽ നിന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ നമ്മൾ നിരവധി തവണ കണ്ടിട്ടുണ്ട് ഇത് ഒന്നുമല്ല ഇത് കോളം1 ഈ കൊണ്ട് ഗുണിക്കും കോളം2 ആയി ഗുണിക്കും അങ്ങനെ തുടർന്ന് കോളംn ആയി ഗുണിക്കും മാട്രിക്സ് വെക്റ്റർ പ്രോഡക്റ്റ് നോക്കുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗമാണ് ഇത് ഈ ആശയം നമ്മൾ ഇവിടെ കൃത്യമായി ഉപയോഗിക്കുന്നു ഇവിടെ ഈ ഈ വെക്റ്റർ കൊണ്ട് ഗുണിക്കുന്നു അതിനാൽ നമ്മളുടെ മാട്രിക്സിൽ ഒരു ആദ്യ കോളം ആയി സ്ഥാപിക്കുന്നു അതുപോലെ തന്നെ ഈ ഈ വെക്റ്റർ കൊണ്ട് ഗുണിക്കുന്നു അതിനാൽ നമ്മളുടെ മാട്രിക്സിൽ രണ്ടാം കോളം ആയി സ്ഥാപിക്കുന്നു അങ്ങനെ തുടരുന്നു അതിനാൽ ഇവിടെയുള്ള ഈ പ്രോഡക്റ്റ് അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഈ ലളിതമായ ആശയത്തിലൂടെ ലെ എലെമെന്റുകൾ ലെ എലെമെന്റുകളിലേക്ക് മാപ്പ് ചെയ്യുന്ന ഏതൊരു ലീനിയർ മാപ്പിനും നമുക്ക് ഈ മാപ്പിനോട് അനുബന്ധമായി ഇവിടെ മാട്രിക്സ് ഉണ്ടായിരിക്കാം ഈ m ക്രോസ് n എന്ന ക്രമത്തിന്റെ ഒരു മാട്രിക്സ് നമുക്ക് ലഭിക്കും 's സഹായത്തോടെ അവയുടെ കോളങ്ങൾ നമുക്ക് എളുപ്പത്തിൽ കണക്കാക്കാം ഇത് ൽ നിന്ന് ലേക്ക് ഉള്ള മാപ്പ് കൃത്യമായി നൽകും ഇപ്പോൾ നമുക്ക് ഇവിടെ ചില ഉദാഹരണങ്ങളിലൂടെ വേഗത്തിൽ പോകാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത ഒരു ഉദാഹരണമാണിത് അതിനാൽ ഈ ആയി നൽകിയിരിക്കുന്നു ഇത് ൽ നിന്നുള്ള ഒരു മൂലകമാണ് തുടർന്ന് നമ്മൾക്ക് ഈ ഘടകം ൽ ലഭിക്കുന്നു ഇപ്പോൾ ഈ അനുബന്ധ മാട്രിക്സ് A എങ്ങനെ ലഭിക്കും നമ്മൾ ഈ കണക്കുകൂട്ടുക എന്നതായിരുന്നു ആശയം അതിനാൽ എന്നാൽ ഈ 1 ഉം 0 ഉം അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ അതായത് തന്നിരിക്കുന്ന നിർവചനത്തിൽ y 0 ആയി സജ്ജമാക്കും അതിനാൽ നമുക്ക് ലഭിക്കും അത് ഒന്നാമത്തെ ഘടകം ആയിരിക്കും അതുപോലെ നമുക്ക് ലഭിക്കും അത് രണ്ടാമത്തെ ഘടകമായിരിക്കും തുടർന്ന് കിട്ടുന്നു അതിൽ ഒന്നാമത്തെ കോളം രണ്ടാമത്തേത് ഇപ്പോൾ ഈ T ഇവിടെ നൽകിയിരിക്കുന്ന ലീനിയർ മാപ്പ് ഈ രീതിയിൽ നിർവചിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് എന്നും നിർവ്വചിക്കാനാകുമെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നു ഈ ന്റെ ഘടകം A ലേക്ക് ഗുണിച്ചാൽ അത് കൃത്യമായി നമുക്ക് ഈ ലീനിയർ മാപ്പ് നൽകും കാരണം നമ്മൾ ഈ കൊണ്ട് A ഗുണിച്ചാൽ ഇവിടെ നമുക്ക് ഉണ്ട് ഈ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഇവിടെ 2x3y അത് ഒന്നാമത്തെ ഘടകമാണ് രണ്ടാമത്തെ ഘടകം x5y തുടർന്ന് മൂന്നാമത്തെ ഘടകം 4x 3y എന്നിവ ലഭിക്കും അതിനാൽ ഈ സഹായത്തോടെ നിർവചിക്കപ്പെട്ട അതേ മാപ്പിംഗ് നമ്മൾക്ക് ലഭിക്കുന്നു അതായത് ഈ മാട്രിക്സ് A യുടെ സഹായത്തോടെ നമ്മൾക്ക് നൽകിയിരുന്ന ലീനിയർ മാപ്പ്നെ നമ്മൾ നിർവചിച്ചു ഒരു ഉദാഹരണം കൂടി നമുക്ക് ഇവിടെ വേഗത്തിൽ നോക്കാവുന്നതാണ് ഈ ഇത് ൽ നിന്നുള്ള ഈ എലിമെൻറ് ഇവിടെ നൽകിയിരിക്കുന്നു തുടർന്ന് ഇവിടെയും ൽ നിന്നുള്ള എലിമെൻറ് നൽകിയിരിക്കുന്നു നമ്മൾക്ക് ഈ ആദ്യ ഘടകം ഉണ്ട് തുടർന്ന് നമ്മൾക്ക് രണ്ടാമത്തെ ഘടകം ഉണ്ട് നമ്മൾക്ക് മൂന്നാമത്തെ ഘടകം ഉണ്ട് അതിനാൽ ഇത് ൽ നിന്ന് ലേക്ക് മാപ്പുചെയ്യുന്നു ഇവിടെ നമുക്ക് മുമ്പ് ഉപയോഗിച്ച അതേ ആശയം വീണ്ടും ഉപയോഗിക്കാം ഇവിടെ അതിനാൽ നമ്മൾക്ക് ഇവിടെ A ഉണ്ട് എന്ന മാട്രിക്സ് ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്ന ലീനിയർ മാപ്പ് ഈ മാട്രിക്സ് വെക്റ്റർ പ്രോഡക്റ്റ് ആയി നിർവ്വചിക്കും വീണ്ടും മെട്രിക്സുകളുമായി പ്രവർത്തിക്കുന്നത് വളരെ എളുപ്പമാണ് അതിനാൽ ഈ മെട്രിക്സുകളുടെ സഹായത്തോടെ നമുക്ക് ഒരു ലീനിയർ മാപ്പിനെ പ്രതിനിധീകരിക്കാൻ കഴിയുന്ന ഒരു മാർഗമാണിത് നമ്മൾ കൺക്ലൂഷൻലേക്ക് വരുന്നു ഇന്ന് നമ്മൾ ലീനിയർ മാപ്പിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ ചെയ്തു അവിടെ നമ്മൾ കേർണൽ F ഇമേജ് F എന്നിവ കണ്ടുപിടിച്ചു Ker Im അതോടൊപ്പം കേർണൽ F ൻറെയും ഇമേജ് F ൻറെയും ഡയമെൻഷൻഉകൾ കണക്കാക്കി കൂടാതെ ലീനിയർ മാപ്പുകൾ എങ്ങനെ നിർവചിക്കാം എന്ന് മെട്രിക്സ് ഉപയോഗിച്ച് നമ്മൾ നോക്കുകയും ചെയ്തു ഒരു ലീനിയർ മാപ്പ് ഉള്ളപ്പോഴെല്ലാം ആയി പ്രവർത്തിക്കുന്ന അനുബന്ധ മാട്രിക്സ് A നമുക്ക് എല്ലായ്പ്പോഴും നിർവചിക്കാം അത് വളരെ ഉപയോഗപ്രദമാണ് മെട്രിക്സുകളുമായി പ്രവർത്തിക്കുന്നത് വളരെ എളുപ്പമാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ലെക്ച്ചറുകൾ തയ്യാറാക്കാൻ നമ്മൾ ഉപയോഗിച്ച റഫറൻസുകൾ ഇവയാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി